നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി ECM ന്റെ ദൃഢത ക്യാൻസറിനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്ന രണ്ട് സുപ്രധാന പ്രബന്ധങ്ങൾ നാം ചർച്ച ചെയ്യുകയുണ്ടായി കൊളാജെൻ 1 ന്റെ ഡെപോസിഷനും തുടർന്ന് ലൈസിൽ ഓക്സിഡേസ് അഥവാ LOX എൻസൈമുമായി കൂടിച്ചേർന്ന് അവയിൽ ഉടലെടുക്കുന്ന ക്രോസ്സ് ലിങ്കിങിന്റെയും അന്തരഫലമായാണ് ECM ന്റെ ദൃഢതയിൽ വർദ്ധനവ് ദൃശ്യമാകുന്നത് എന്ന സൂചനയാണ് മേൽസൂചിപ്പിച്ച പഠനങ്ങളെല്ലാം സ്ഥിതീകരിക്കുന്നത് കോൺസെൻട്രേഷന്റെ നിരക്കിൽ മൂന്ന് മടങ്ങ് വർദ്ധനവുണ്ടാകുമ്പോൾ കൊളാജെൻ ജെല്ലിന്റെ സ്വഭാവസവിശേഷതകളിൽ എപ്രകാരം വ്യതിയാനം ദൃശ്യമാകുന്നു എന്ന് നാം നേരത്തെ ചർച്ച ചെയ്യുകയുണ്ടായി കൊളാജെന്റെ സാന്ദ്രതയിൽ പ്രകടമാകുന്ന വർദ്ധനവ് അക്ഷരാർത്ഥത്തിൽ മെട്രിക്സിന്റെ ബൾക്ക് സ്റ്റിഫ്നെസ്സിനെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി മാത്രമല്ല ക്രോസ്സ് ലിങ്കിങ് എൻസൈമുകളുടെ സാന്നിധ്യം പ്രസ്തുത വർദ്ധനവിനെ പോഷിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വസ്തുത ഏകദേശം 200Pa നിരക്കിൽ മാത്രം ദൃഢത ദൃശ്യമായിരുന്ന സസ്തനഗ്രന്ഥിയിൽ 25 മടങ്ങിന്റെ വർദ്ധനവിലൂടെ 5000Pa നിരക്കിലുള്ള ഉയർന്ന ദൃഢത പ്രകടമാകാനുള്ള കാരണവും ഇത് തന്നെയാണ് 2D പ്രതലങ്ങളെ കൂടുതൽ സുദൃഢമാക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പരിചിതമാണ് ഇനി 3D പരിമാണങ്ങളുടെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം 2D സാഹചര്യങ്ങളിൽ അണിനിരക്കുന്ന കോശങ്ങൾക്ക് പ്രതലങ്ങൾക്ക് മേൽ പ്രകടമാകുന്ന ഉയർന്ന ദൃഢതയുടെ സാന്നിധ്യം ദ്രുതഗതിയിൽ ഗ്രഹിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ഇത് സ്വാഭാവികമായും അവയിൽ ദൃശ്യമാകുന്ന വർദ്ധിത നിരക്കിലുള്ള ഫോക്കൽ എഡ്ഹെഷനുകൾക്കും Rho ROCK സിഗ്നലിങിനും നിദാനമാകുന്നു സ്ലൈഡ് ടൈം 0237 ൽ കാണിച്ചിരിക്കുന്നത് ക്യാൻസർ സംബന്ധമായ രണ്ട് സുപ്രധാന റെഗുലേറ്ററുകളാണ് പ്രസ്തുത കോശം ഒരു 3D മെട്രിക്സിലൂടെ മൈഗ്രേറ്റ് ചെയ്യുകയാണെന്ന് സങ്കൽപ്പിക്കുക ഇത് തീർത്തും അപൂർവ്വമായ ഒരു സന്ദർഭമാണ് സ്വാഭാവികമായി നിലനിൽക്കുന്ന കൺഫൈൻമെന്റും നിയതമായ സ്റ്റെറിക് ഹിൻഡ്രൻസും 3D മെട്രിക്സുകളുടെ ഒരു സവിശേഷതയാണ് 2D പ്രതലങ്ങളിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന പ്രതിഭാസം ദൃശ്യമല്ല എന്നാൽ 3D മെട്രിക്സുകളിൽ കോശങ്ങൾ പ്രസ്തുത പ്രതിഭാസത്തെ തരണം ചെയ്ത് സഞ്ചരിക്കുകയാണ് പതിവ് സ്പാഴ്സ് മെട്രിക്സുകളിൽ കോശങ്ങൾക്ക് സുഷിരങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് എന്നാൽ സാന്ദ്രതയേറിയ മെട്രിക്സുകളിൽ അവയുടെ സഞ്ചാരം ഒരു റേറ്റ് ലിമിറ്റിങ് ഫാക്ടർ എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് കൺഫൈൻഡ് മൈഗ്രേഷനിൽ ന്യൂക്ലിയർ ഡിഫോർമേഷൻ എന്ന ഘടകമാണ് റേറ്റ് ലിമിറ്റിങ് ഫാക്ടറായി നിലകൊള്ളുന്നത് പ്രസ്തുത ഘടകത്തെ കുറിച്ച് നാം അടുത്ത് തന്നെ വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും ദൃഢതയിൽ പ്രകടമാകുന്ന വർദ്ധനവ് ക്യാൻസറിന്റെ അധിനിവേശ പ്രവണതയിൽ ചെലുത്തുന്ന സ്വാധീനം എപ്രകാരമാണ് എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് ദൃഢതയിൽ ദൃശ്യമാകുന്ന ഉയർച്ച മെട്രിക്സിനെ ദൃഢീകരിക്കുകയും കോശങ്ങൾക്ക് മേൽ അനുഭവപ്പെടുന്ന സ്റ്റെറിക് ഹിൻഡ്രൻസിന് നിദാനമാകുകയും ചെയ്യുന്നു മേല്പറഞ്ഞ സ്റ്റെറിക് ഹിൻഡ്രൻസിനെ മറികടക്കുന്നതിനായി പ്രസ്തുത കോശങ്ങൾ ചില മാർഗ്ഗങ്ങൾ കൈകൊള്ളാറുണ്ട് എന്നതാണ് വസ്തുത മൈഗ്രേഷന് വഴിയൊരുക്കുന്നതിനായി അവ മെട്രിക്സ് ജീർണ്ണിപ്പിക്കാൻ കെല്പുള്ള പ്രോട്ടീനേസസ് എന്ന ഡീഗ്രേഡിങ് എൻസൈമുകൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി MMPs എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇത്തരം മെട്രിക്സ് മെറ്റലോപ്രോട്ടിനേസുകൾ എൻഡോപെപ്റ്റിഡേസ് എന്ന പ്രമുഖ കുടുംബത്തിൽ ഉൾപ്പെട്ടവയാണ് ക്യാൻസറിൽ ഒന്നിലധികം MMP കൾ ഓവർ എക്സ്പ്രസ്സ് ചെയ്യുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യശരീരത്തിൽ തന്നെ 23 വ്യത്യസ്തയിനം MMP പ്രോട്ടീനുകൾ നിലവിലുള്ളതായി ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി ഇവയിൽ ഏതാനും ചിലത് മെട്രിക്സിലും മറ്റ് ചിലത് മെംബ്രേയ്നിലും നങ്കൂരമിട്ടിരിക്കുന്നതായാണ് സൂചന MT1 MMP അഥവാ MMP 14 കോശങ്ങളുടെ മെംബ്രേയ്നിൽ നിലയുറപ്പിച്ച ഒരു സുപ്രധാന MMP യാണ് ഇത് കൂടാതെ ലയനപ്രവണതയുള്ള മറ്റനേകം MMP കളും നിലവിലുണ്ട് MMP 2 9 എന്നിവ ഇതിന് ഉദാഹരണമാണ് ഇന്റെഗ്രിനുമായി കോ ലോക്കലൈസ് ചെയ്യുന്ന അനേകം MMPs നിലവിലുണ്ട് എന്നത് തീർത്തും കൌതുകകരമായ ഒരു വസ്തുതയാണ് ചുരുക്കിപ്പറഞ്ഞാൽ MMP കളുടെ പ്രവർത്തനവും ഫോക്കൽ എഡ്ഹെഷൻ സിഗ്നലിങും തമ്മിൽ ക്രോസ് ടോക്ക് നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ക്യാൻസറിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും MMP കൾ ഓവർ എക്സ്പ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന സൂചനയിൽ നിന്നും അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിലൂടെ കോശങ്ങളിൽ ദൃശ്യമാകുന്ന അധിനിവേശ പ്രവണത ഒരു പരിധി വരെ ക്രമീകരിക്കുവാൻ ഒരു പക്ഷെ നമുക്ക് സാധ്യമായേക്കും പ്രസ്തുത ആശയത്തിന്റെ ചുവടുപിടിച്ച് MMP യെ ലക്ഷ്യം വെച്ച് ഒന്നിലധികം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് ഗവേഷകർ ശ്രമം നടത്തുകയുണ്ടായി നിർഭാഗ്യവശാൽ മേല്പറഞ്ഞ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് തീർച്ചയായും അതിന് ഹേതുവായ കാരണങ്ങൾ പലതാണ് MMPs ന് രോഗാവസ്ഥകളിൽ മാത്രമല്ല മറിച്ച് ഡെവലപ്മെന്റ് പോലുള്ള മറ്റനേകം സുപ്രധാന ഫിസിയോളജിക്കൽ പ്രക്രിയകളിലും അവയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ അവയുടെ പ്രവർത്തനം സ്പേഷ്യോ ടെമ്പറലി റെഗുലേറ്റഡ് ആണെന്ന് സാരം വളരെ സന്ദർഭോചിതമായ രീതിയിലാണ് അവ പ്രവർത്തിലേർപ്പെടുന്നത് ഇത് കൂടാതെ മറ്റൊരു കാരണം കൂടി നിലവിലുണ്ടെന്ന് പീറ്റർ ഫ്രീഡൽ എന്ന ഗവേഷകൻ തെളിയിക്കുകയുണ്ടായി പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി MDA MB 231 സ്തനാർബുദ കോശങ്ങളും HT 1080 ഫൈബ്രോ സർക്കോമ കോശങ്ങളുമാണ് അദ്ദേഹം പഠനത്തിനായി തിരഞ്ഞെടുത്തത് പ്രോട്ടിയേസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ മേല്പറഞ്ഞ രണ്ട് കോശങ്ങളിലും വർദ്ധിത നിരക്കിൽ ഇൻവേസീവ് പ്രവണത പ്രകടമാകുന്നതായി നമുക്ക് ദൃശ്യമാകും ഡീഗ്രേഡഡ് സോണുകൾ സൃഷ്ടിച്ചാണ് കോശങ്ങൾ സാധാരണഗതിയിൽ മെട്രിക്സിലൂടെ സഞ്ചരിക്കുന്നത് അത്തരമൊരു ഡീഗ്രേഡഡ് സോണാണിത് MMPs സിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിലൂടെ കോശങ്ങൾ പ്രസ്തുത രൂപഘടനയിൽ നിന്നും വൃത്താകൃതിയിലേക്ക് രൂപാന്തരപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത അക്ഷരാർത്ഥത്തിൽ ഇത്തരമൊരു ആകൃതി കൈവരിക്കുന്നതിലൂടെ അവയ്ക്ക് സുദൃഢമായ മെട്രിക്സിലൂടെ ഞെരിഞ്ഞമർന്ന് നീങ്ങാൻ സാധിക്കുമെന്ന് സാരം ഈ കാണുന്നത് മീസെൻകൈമൽ മൈഗ്രേഷനാണ് എന്നാൽ പ്രസ്തുത കോശങ്ങൾ അമീബോയ്ഡൽ മാതൃകയിലാണ് സഞ്ചാരം കാഴ്ചവെച്ചത് ഇക്കഴിഞ്ഞ ലെക്ച്ചറുകളിൽ നാം ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി മേല്പറഞ്ഞ മീസെൻകൈമൽ മൈഗ്രേഷൻ എന്നത് പ്രോട്ടിയേസ് ഡിപെൻഡന്റ് മൈഗ്രേഷനാണ് എന്നാൽ അമീബോയ്ഡൽ മൈഗ്രേഷനാകട്ടെ പ്രോട്ടിയേസ് ഇൻഡിപെൻഡന്റ് മാതൃകയിലുള്ള മൈഗ്രേഷനാണ് മേൽ സൂചിപ്പിച്ച പരിവർത്തനത്തെ മീസെൻകൈമൽ ടു അമീബോയ്ഡൽ ട്രാൻസിഷൻ അഥവാ MAT എന്നാണ് നാം അഭിസംബോധന ചെയ്യുന്നത് MMPs ന്റെ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ MAT ന്റെ സാന്നിധ്യത്തിൽ കോശങ്ങൾ എഡ്ഹെഷൻ ഡിപെൻഡന്റ് പ്രോട്ടിയേസ് ഡിപെൻഡന്റ് മൈഗ്രേഷനിൽ നിന്നും വിഭിന്നമായി എഡ്ഹെഷൻ ഇൻഡിപെൻഡന്റ് പ്രോട്ടിയേസ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷനാണ് കാഴ്ചവെക്കുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ പാത്ത് ജെനറേറ്റിങ് മൈഗ്രേഷനിൽ നിന്നും വ്യത്യസ്തമായി പ്രോട്ടിയേസിന്റെ സഹായത്താൽ കോശങ്ങളിൽ പാത്ത് ഫൈൻഡിങ് മൈഗ്രേഷനിലേക്കുള്ള പരിവർത്തനമാണ് പ്രകടമാകുന്നത് അമീബോയ്ഡൽ മൈഗ്രേഷന്റെ 3D വ്യവസ്ഥിതിയിൽ പ്രൊട്രൂഷനിൽ അഥവാ കൺട്രാക്ടയിലിറ്റിയിൽ ആശ്രിതമായ വിവിധയിനം മൈഗ്രേഷനുകൾ നിലവിലുണ്ട് എന്ന് നാം നേരത്തെ ചർച്ച ചെയ്തിരുന്നു പ്രസ്തുത പഠനങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ചോദ്യമെന്തെന്നാൽ ഒട്ടുമിക്ക കോശങ്ങൾക്കും മേൽ സൂചിപ്പിച്ച MAT പ്രദർശിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് മേൽ സൂചിപ്പിച്ച മോളിക്യുലർ മെക്കാനിസത്തെ പ്രാപ്തമാക്കുന്ന സംവിധാനമെന്താണ് എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന രണ്ടാമത്തെ ചോദ്യം MMP കളും കോശങ്ങളുടെ സഞ്ചാരവും തമ്മിൽ അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് ECM ന്റെ ദൃഢതയിൽ അനുഭവപ്പെടുന്ന വർദ്ധനവ് മീസെൻകൈമൽ മൈഗ്രേഷനെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത മാത്രമല്ല MAT മായി ബന്ധപ്പെട്ട് ഫീനോടൈപ്പിൽ പ്രകടമാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി പോളിഅക്രിലമൈഡ് ജെൽ ഉപയോഗപ്പെടുത്തി മൃദുലവും സുദൃഢവുമായ രണ്ട് പ്രതലങ്ങൾ നിർമ്മിച്ച് നമുക്ക് ലളിതമായ ഒരു പരീക്ഷണം നടത്താം പ്രസ്തുത ജെല്ലുകൾ കൊളാജെൻ 1 കൊണ്ട് ലേപനം ചെയ്തവയാണ് ഇവയിൽ നാം MDA MB 231 HT 1080 MCF 7 എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്തയിനം സെൽ ലൈനുകൾ അണിനിരത്തുകയാണ് പ്രസ്തുത സെൽ ലൈനിലെ ആദ്യ രണ്ടിനം കോശങ്ങൾ ഉയർന്ന നിരക്കിൽ മെറ്റാസ്റ്റാറ്റിക് പ്രവണത കാഴ്ച്ചവെക്കുന്നവയാണ് MCF 7 എന്നത് സ്തനാർബുദ കോശങ്ങളുടെ ട്യൂമർ സൃഷ്ടിക്കാൻ കെല്പുള്ള സെൽ ലൈനാണ് പക്ഷെ അവയ്ക്ക് മെറ്റാസ്റ്റാസൈസ് ചെയ്യാനോ അഥവാ ഒരു അവയവത്തിൽ നിന്നു മറ്റൊന്നിലേക്ക് മാരകമാംവിധം പടരാനോ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത പ്രസ്തുത പരീക്ഷണത്തിൽ മേല്പറഞ്ഞ മൂന്ന് വ്യത്യസ്തയിനം കോശങ്ങളെ കൊളാജെൻ കൊണ്ട് ലേപനം ചെയ്ത അതിമൃദുലവും സുദൃഢവുമായ PA ജെല്ലുകൾക്ക് മുകളിൽ കൾച്ചർ ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം സസ്തനഗ്രന്ഥിയിൽ കാണപ്പെടുന്ന സാധാരണ ബ്രെസ്റ്റ് ടിഷ്യൂവിന് അനുരൂപമായ ദൃഢതയുള്ളവയാണ് മേൽ സൂചിപ്പിച്ച മൃദുപ്രതലങ്ങൾ എന്നാൽ അവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി സുദൃഢമായ പ്രതലങ്ങൾ മെറ്റാസ്റ്റാറ്റിക് ബ്രെസ്റ്റ് ടിഷ്യൂവിന് സമാനമായ 5 kPa അധികദൃഢതയുള്ളവയാണ് കോശങ്ങൾ ദൃഢതയിൽ അധിഷ്ടിതമായ വ്യാപനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് പ്രസ്തുത പരീക്ഷണത്തിലൂടെ നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും ഇതിലൂടെ മൃദുവും സുദൃഢവുമായ പ്രതലങ്ങൾക്കിടയിൽ MDA MB HT കോശങ്ങളുടെ നാടകീയമായ വർദ്ധനവ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത MCF 7 കോശങ്ങളിൽ വർദ്ധനവ് പ്രകടമാണെങ്കിലും അവ ദൃഢതയിൽ ആശ്രിതമല്ല പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി കണ്ടീഷൻഡ് മീഡിയയെ നമുക്ക് എസ്സേ ചെയ്യാവുന്നതാണ് കണ്ടീഷൻഡ് മീഡിയ ശേഖരിച്ച് ജലാറ്റിൻ സൈമോഗ്രഫിക്ക് വിധേയമാക്കാവുന്നതാണ് പ്രസ്തുത സാങ്കേതികത്വത്തിൽ ജലാറ്റിന്റെ സാന്നിധ്യമുള്ള പോളിഅക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറെസിസാണ് നാം ഉപയോഗപ്പെടുത്തുന്നത് മേല്പറഞ്ഞ സംവിധാനത്തിലൂടെയാണ് നാം പ്രോട്ടീൻ റൺ ചെയ്യുന്നത് കോശങ്ങൾ സ്രവിക്കുന്ന MMPs ഉൾപ്പെടെ ഒന്നിലധികം പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്ന കണ്ടീഷൻഡ് മീഡിയ ഉപയോഗപ്പെടുത്തിയാണ് നാം പരീക്ഷണം നടത്തുന്നത് പ്രസ്തുത പരീക്ഷണത്തിലൂടെ അനവധി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുകയുണ്ടായി മൃദുവും സുദൃഢവുമായ രണ്ട് അവസ്ഥകൾ കേന്ദ്രീകരിച്ചാണ് നാം സൈമോഗ്രഫി പഠനങ്ങൾ നടത്തിയത് MMP 2 അഥവാ MMP 9 എന്നീ പ്രോട്ടീനുകളുടേതിന് അനുരൂപമായ മോളിക്യുലർ വെയ്റ്റുള്ള ഏതാനും ശ്വേത നിറമുള്ള പാച്ചുകൾ ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകുകയുണ്ടായി പ്രസ്തുത പ്രോട്ടീൻ ഈ കാണുന്ന ജെല്ലിൽ മൈഗ്രേറ്റ് ചെയ്ത ദൂരമാണിത് സൈമോ അഥവാ സൈമോഗ്രാം ആക്റ്റിവേറ്റ് ചെയ്യുമ്പോൾ അവ കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ജലാറ്റിനെ സാവധാനം ഡീഗ്രേഡ് ചെയ്യുകയും അതിന്റെ പരിണിതഫലമായി ഇത്തരം ശ്വേത സോണുകൾ ഉടലെടുക്കുകയും ചെയ്യുന്നു മേല്പറഞ്ഞ സോണുകളുടെ തീവ്രതകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിലൂടെ പ്രസ്തുത പ്രോട്ടീനിന്റെ പ്രവർത്തനം നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കും എന്നതാണ് വസ്തുത ECM ന്റെ ദൃഢതയിൽ വർദ്ധനവ് പ്രകടമായാൽ അതിന്റെ പരിണിതഫലമായി മേൽ സൂചിപ്പിച്ച MDA MB HT കോശങ്ങളിൽ MMP 2 9 എന്നീ പ്രോട്ടീനുകളുടെ അധിക തോതിലുള്ള പ്രവർത്തനം ദൃശ്യമാകുന്നതായി ഗവേഷകർ നിരീക്ഷിക്കുകയുണ്ടായി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മേല്പറഞ്ഞ കോശങ്ങൾ സുദൃഢമായ പരിതസ്ഥിതിയിൽ ഒട്ടനവധി പ്രോട്ടീയേസുകൾ സ്രവിക്കുന്നുണ്ട് എന്ന് സാരം അതിസാന്ദ്രമായ ശൃംഖലകളിൽ ക്യാൻസർ കോശങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ ആക്രമണകാരികളാകുന്നു എന്നതിന്റെ വിശദീകരണമാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ECM ന്റെ സാന്ദ്രതയിൽ പ്രകടമാകുന്ന വർദ്ധനവിൽ ഞെരുക്കമനുഭവിക്കുന്ന കോശങ്ങൾ അതിനെ പ്രതിരോധിക്കുവാൻ വിവിധയിനം പ്രോട്ടിയേസുകൾ സ്രവിക്കുകയും ഇത്തരത്തിൽ അധിക നിരക്കിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടിയേസുകൾ പതിയെ മെട്രിക്സിനെ ഡീഗ്രേഡ് ചെയ്ത് കോശങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം സൃഷ്ടിക്കുകയൂം ചെയ്യുന്നു എന്നതാണ് വസ്തുത സുദൃഢമായ സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങൾ അധിക തോതിൽ അധിനിവേശ പ്രവണത കാഴ്ചവെക്കാനുള്ള ഒരു പൊതുവായ കാരണം വർദ്ധിത നിരക്കിൽ സ്രവിക്കപ്പെടുന്ന പ്രോട്ടിയേസുകൾ തന്നെയാണ് മേല്പറഞ്ഞ പ്രോട്ടിയേസുകൾ ഉല്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ അക്ഷരാർത്ഥത്തിൽ മയോസിൻ II വിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ബ്ലെബ്ബിസ്റ്റാറ്റിൻ സംയുക്തം ഉപയോഗപ്പെടുത്തി മയോസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പ്രസ്തുത പ്രോട്ടിയേസുകളുടെ പ്രവർത്തനം ഗണ്യമായി കുറയുന്നതായി നമുക്ക് ദൃശ്യമാകും ചുരുക്കിപ്പറഞ്ഞാൽ MMP യുടെ പ്രവർത്തനം കൺട്രാക്ടയിലിറ്റിയുടെ സ്വാധീനത്തിൽ ക്രമീകരിക്കപ്പെടുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് പ്രസ്തുത പ്രക്രിയയ്ക്ക് നിദാനമാകുന്ന പ്രേരണ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം സുദൃഢമായ പ്രതലങ്ങളിൽ കൺട്രാക്ടയിലിറ്റി മൂലം ഫോക്കൽ എഡ്ഹെഷനുകൾ രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്നത് നമുക്ക് സുപരിചിതമായ ഒരു വസ്തുതയാണ് മേല്പറഞ്ഞ ഫോക്കൽ കോംപ്ലെക്സുകൾ പ്രബലമാക്കുവാൻ നിയതമായ ഫോഴ്സിന്റെ ആവശ്യമുണ്ട് MMP യും ഫോക്കൽ എഡ്ഹെഷനുകളും തമ്മിൽ വ്യക്തമായ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടുതന്നെ മേൽ സൂചിപ്പിച്ച MMP യും പ്രസ്തുത പ്രക്രിയ നിയന്ത്രിക്കുന്ന ഇന്റെഗ്രിനുകളും തമ്മിൽ എന്തെങ്കിലും സമ്പർക്കം പുലർത്തുന്നുണ്ടോ എന്ന സാധ്യതയും നാം പരിശോധിക്കേണ്ടതുണ്ട് പ്രസ്തുത പരീക്ഷണത്തിന്റെ ഭാഗമായി GM 6001 എന്ന ബ്രോഡ് സ്പെക്ട്രം MMP പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ ഉപയോഗപ്പെടുത്തി നാം കോശങ്ങളെ ലേപനം ചെയ്യുകയുണ്ടായി മൃദുപ്രതലങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ സുദൃഢമായ പ്രതലങ്ങളിൽ MDA MB കോശങ്ങളുടെ സ്പ്രെഡിങ് പ്രൊഫൈൽ വ്യക്തമായ വർദ്ധനവ് പ്രകടിപ്പിക്കുന്നതായി നമുക്ക് ദൃശ്യമാകും എന്നാൽ GM ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവയുടെ വ്യാപനം തടസ്സപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത വ്യാപനത്തിന്റെ നിരക്കിൽ വർദ്ധനവ് പ്രകടമാകുമ്പോഴാണ് നാം GM പ്രയോഗിക്കുന്നതും അതിന്റെ പരിണിതഫലമെന്നോണം വ്യാപനത്തിന്റെ തോത് തടസ്സപ്പെടുന്നതും കോശങ്ങളിൽ GM ഉപയോഗിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവയിൽ കാണപ്പെടുന്ന ഇന്റെഗ്രിൻ സിഗ്നലിങ് സംവിധാനം അസ്വസ്ഥമാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫോക്കൽ എഡ്ഹെഷൻ കൈനേസ് 397 റെസിഡ്യൂവിന്റെ ഫോക്കൽ എഡ്ഹെഷൻ ഫോസ്ഫോറിലേഷൻ പ്രക്രിയക്ക് കോട്ടം തട്ടുന്നതായി നമുക്ക് ദൃശ്യമാകും ചുരുക്കിപ്പറഞ്ഞാൽ GM ഉപയോഗപ്പെടുത്തുമ്പോൾ ഇന്റെഗ്രിൻ സിഗ്നലിങ് സംവിധാനത്തിന് വിലക്കേർപ്പെടുന്നുണ്ട് എന്ന് ചുരുക്കം എങ്ങനെയാണിത് സംഭവിക്കുന്നത് പ്രസ്തുത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് ഇന്റെഗ്രിൻ റീസൈക്ലിങ് പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് നിങ്ങൾക്ക് മുൻപിൽ ഒരു കോശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക കോശങ്ങളെ പെർമിയബിലൈസ് ചെയ്യാതെ തന്നെ അവയിൽ കാണപ്പെടുന്ന ഇന്റെഗ്രിനുകളെ നാം പ്രോബ് ചെയ്യുകയാണ് ചെയ്യുന്നത് പെർമിയബിലൈസേഷൻ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇന്റെഗ്രിനുകൾ ഈ കാണുന്നത് പോലെ പുറത്തേക്ക് തള്ളിനില്ക്കുന്നതായി നമുക്ക് ദൃശ്യമാകും GM കൊണ്ട് ലേപനം ചെയ്ത കോശങ്ങളിൽ ഇന്റെഗ്രിനുകൾ പുനഃരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ MMP യുടെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ ഇന്റെഗ്രിനുകൾ സ്വാഭാവികമായും വർദ്ധിത നിരക്കിൽ സൈറ്റോപ്ലാസ്മിക് ലോക്കലൈസേഷൻ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും പ്രസ്തുത എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയ്നിനെ ഒരു ആന്റിബോഡി ഉപയോഗപ്പെടുത്തി ബന്ധിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം മേല്പറഞ്ഞത് പോലെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൊമെയ്നുമായി ബന്ധിക്കുന്ന ഒരു ആന്റിബോഡി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കോശങ്ങളുടെ വൃത്തപരിധിയോട് ചേർന്ന് നിയതമായ ഒരു ചുവന്ന സ്റ്റെയ്നിങ് നിങ്ങൾക്ക് ദൃശ്യമാകും എന്നാൽ പ്രസ്തുത കോശങ്ങളിൽ GM ഉപയോഗപ്പെടുത്തുമ്പോൾ അവയുടെ വൃത്തപരിധിയിൽ പ്രകടമാകുന്ന വ്യക്തമായ ലോക്കലൈസേഷന് പകരമായി മുഴുവൻ പ്രോട്ടീനും കോശങ്ങൾക്കുള്ളിൽ തന്നെ പ്രാദേശികവൽക്കരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത MMP യുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന്റെ പരിണിതഫലമായി മെംബ്രേയ്നിൽ കാണപ്പെടുന്ന ഇന്റെഗ്രിനിന്റെ സ്ഥിരതയ്ക്ക് കോട്ടം തട്ടുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഫോക്കൽ എഡ്ഹെഷനുകൾ സുസ്ഥിരമാക്കുന്നതിൽ കൺട്രാക്ടയിലിറ്റി എന്ന ഘടകം വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് മുൻപിൽ ഫോക്കൽ എഡ്ഹെഷനുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാഹചര്യമാണ് നിലവിലുള്ളത് GM ന്റെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫോക്കൽ എഡ്ഹെഷനുകൾ ദുർബ്ബലപ്പെടുകയും കോശങ്ങളിൽ പ്രകടമാകുന്ന വ്യാപനം നിലയ്ക്കുകയും ചെയ്യുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ഇവിടെ ഒരു ടൂ വേ ക്രോസ്സ് ടോക്കിന്റെ സാന്നിധ്യമുണ്ടെന്ന് സാരം അതായത് കൺട്രാക്ടയിലിറ്റി എന്ന ഘടകം ഫോക്കൽ എഡ്ഹെഷനുകൾ സുസ്ഥിരമാക്കുന്നതിൽ മാത്രമല്ല മറിച്ച് MMP യുടെ കരുത്തുറ്റ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നതിലും സുവ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത എന്നാൽ MMP യുടെ പ്രവർത്തനം GM ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുമ്പോൾ അവയിലെ ഫോക്കൽ എഡ്ഹെഷനുകൾ ദുർബ്ബലപ്പെടുകയും കോശങ്ങളിൽ പ്രകടമാകുന്ന വ്യാപനം നിലയ്ക്കുകയും പ്രസ്തുത സന്ദർഭം ട്രാക്ഷൻ ക്ഷയിക്കാൻ കാരണമായി ഭവിക്കുകയും ചെയ്യുന്നു കൺട്രാക്ടയിലിറ്റിയും MMP യുടെ പ്രവർത്തനവും തമ്മിൽ ശക്തമായ ക്രോസ് ടോക്ക് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ലഭ്യമായ ഫലങ്ങൾ സ്ഥിതീകരിക്കുന്നത് ചുരുക്കിപറഞ്ഞാൽ കൺട്രാക്ടയിലിറ്റിയിൽ അസ്വസ്ഥത പ്രകടമാകുമ്പോൾ ഫോക്കൽ എഡ്ഹെഷനുകൾ ക്ഷയിക്കുകയും MMP യുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നു എന്ന് സാരം മറുവശത്ത് MMP യുടെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ ഫോക്കൽ എഡ്ഹെഷനുകൾ ദുർബ്ബലപ്പെടുകയും അതിന്റെ പരിണിതഫലമായി ട്രാക്ഷൻ ക്ഷയിക്കുകയും കോശങ്ങൾ മയപ്പെടുകയും ചെയ്യുന്നു എന്ന് സ്പഷ്ടം MAT പ്രവർത്തനസജ്ജമാകുന്ന ഒരു പ്രക്രിയയുടെ സൂചനയാണോ ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് കൺട്രാക്ടയിലിറ്റി എന്ന ഘടകം MMP യുടെ പ്രബലമായ പ്രവർത്തനത്തെ മുൻനിർത്തിയാണ് ഫോക്കൽ എഡ്ഹെഷനുകളെ പ്രേരിപ്പിക്കുന്നത് പ്രസ്തുത സന്ദർഭത്തിൽ തീർത്തും സുസ്ഥിരമായ ഒരു മീസെൻകൈമൽ അവസ്ഥ രൂപപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത എന്നാൽ GM ഉപയോഗപ്പെടുത്തി MMP യുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഫോക്കൽ എഡ്ഹെഷനുകൾ ഇല്ലാതാകുകയും ഇന്റെഗ്രിൻ സിഗ്നലിങ് ദുർബ്ബലപ്പെടുകയും ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകും ഇതിന്റെ പരിണിതഫലമെന്നോണം കോശങ്ങളിൽ പ്രകടമാകുന്ന വ്യാപനം അസ്വസ്ഥമാകുകയും കോശങ്ങളുടെ മോട്ടിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു സഞ്ചാരസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന കോശങ്ങളിൽ ക്രമേണ ട്രാക്ഷൻ നിലയ്ക്കുകയും പ്രസ്തുത കോശങ്ങൾ പതിയെ മയപ്പെടുകയും ചെയ്യുന്നു കോശങ്ങളിൽ ദൃശ്യമാകുന്ന മൃദുത്വം അവയുടെ ഫീനോടൈപ്പിൽ പ്രകടമാകുന്ന മാറ്റത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്നും പ്രസ്തുത പരിവർത്തനം കോശങ്ങളെ അമീബോയ്ഡൽ ഫീനോടൈപ്പിലേക്ക് നയിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യവും ഇവിടെ തീർത്തും പ്രസക്തമാണ് അമീബോയ്ഡൽ മൈഗ്രേഷൻ കാഴ്ചവെക്കുന്ന കോശങ്ങൾക്ക് സുഷിരങ്ങളിലൂടെ ഞെരിഞ്ഞമർന്ന് കടന്നുപോകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷെ മേൽ സൂചിപ്പിച്ച പ്രക്രിയയായിരിക്കാം മീസെൻകൈമൽ വ്യവസ്ഥിതിയിൽ നിന്നും അമീബോയ്ഡൽ വ്യവസ്ഥിതിയിലേക്ക് ചുവടുമാറാൻ കോശങ്ങളെ പ്രാപ്തമാക്കുന്ന സംവിധാനം ക്യാൻസറിനെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് ഞാനിവിടെ വിരാമമിടുകയാണ് അടുത്ത രണ്ട് ക്ലാസ്സുകളിലായി അതിറോസ്ക്ളീറോസിസ് മസ്ക്യുലർ ഡയസ്ട്രോഫി എന്നീ രോഗാവസ്ഥകളുടെ ഓരോരോ ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്നിവിടെ വിവിധയിനം രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ട മെക്കാനോബയോളജിക്കൽ പരിവർത്തനങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി ഇവയിൽ ചിലത് രോഗപീഢകളുടെ അനന്തരഫലമായി ഭവിക്കുന്നവയും ചിലത് രോഗാവസ്ഥകളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നവയുമായിരിക്കും നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി